നമസ്കാരം നമുക്ക് ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചറിനെ പ്രവേശിക്കാൻ കഴിയും അതിനാൽ എല്ലാ സെർവർ ആണ് അതിനർത്ഥം സെർവർ മെഷീനിലെ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ കാര്യങ്ങൾ തുടരുന്നു 2 തരം ഉണ്ട് സേവനം ഒരേസമയം നൽകുന്ന ഒരു കൺകറന്റ് സെർവർ ഇത് നമ്മുടെ നിലവാരത്തെ വ്യത്യാസപ്പെടുത്തുന്നു ഇപ്പോൾ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതു വളരെ ജനപ്രിയമായ ഒരു കാര്യമാണെങ്കിൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ ആണ് അത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെ പ്രധാന വശങ്ങളിലൊന്നാണ് ഒരു ക്ലസ്റ്റർ കൂടുതൽ ന്യായീകരിക്കാനും മുഴുവൻ വിഭവങ്ങളും നന്നായി വിനിയോഗിക്കാനും ധാരാളം പങ്കാളികളെ പരിപാലിക്കാനും കഴിയുമെന്ന് കാണിക്കാനോ നിർദ്ദേശിക്കാനോ ശ്രമിക്കുന്നു ചിത്രം വളരെ വ്യക്തമല്ല അതിനാൽ കാര്യങ്ങൾ വിഭജിക്കുക ചുവടെയുള്ളത് ഓപ്പറേഷണലിൻറെ പ്രക്രിയകളാണ് കാര്യത്തിനുള്ള ഒരു സേവനമായി എനിക്ക് ബിസിനസ്സ് ചെയ്യാനോ കഴിയും

ഇപ്പോൾ മുഴുവൻ കാര്യത്തിനും ഒരു ഇന്റഗ്രേഷൻ പ്ലാറ്റ്ഫോം തരത്തിലുള്ളത് അതിനാൽ സേവന നിർവ്വഹണ കാര്യം അതിനാൽ സംയോജനം ഞാനത് ചെയ്യുമ്പോഴെല്ലാം എല്ലാം ചെയ്യുന്ന സേവനത്തിൻറെ ഗുണമാണ് ആവശ്യപ്പെടുന്നത് നമുക്ക് നൽകാൻ താൽപ്പര്യപ്പെടുന്ന സേവനത്തിൻറെ ഉചിതമായ തലത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമോയെന്നാണ് നോക്കേണ്ടത് ഇവിടെ വിവരങ്ങളുടെ വ്യാപനം ഉണ്ട് അതായത് ഏത് തരത്തിലുള്ള സേവനങ്ങളാണ് നൽകുന്നത് എങ്ങനെ അതുമായി ബന്ധപ്പെടാം എന്നിവയെല്ലാം വിവര തരത്തിലുള്ള കാര്യങ്ങളാണ് ഒടുവിൽ എനിക്ക് മൊത്തത്തിലുള്ള ഭരണം ഉണ്ടായിരിക്കണം ഈ ഭരണം ഇൻഫ്രാസ്ട്രക്ചറിൻറെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നിയമപരമായി സാധുതയുള്ളതാണ് അതിനാൽ ഇതാണ് ഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത സേവനങ്ങളുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാകും ഞാൻ ഇത് ആവർത്തിക്കുന്നില്ല കാരണം നമ്മൾ ഇത് മറ്റ് പല രൂപത്തിൽ പല വശങ്ങളിൽ കണ്ടു അതിനാൽ അവസാനമായി നമ്മൾ ഈ വ്യത്യസ്ത സേവന മോഡൽ ഉപയോഗിക്കുന്നു അതിനാൽ SaaS PaaS IaaS എന്നിവയെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി ഈ സേവന മോഡലിലിൽ അല്പം കൂടി ശ്രദ്ധിക്കുന്നത് കാണാം നമുക്ക് ട്രാൻസ്പോർട്ടേഷനുമായി ഇവിടെ പ്രവർത്തിക്കുന്നു അതിനാൽ ഒരു സേവനമെന്ന നിലയിൽ സോഫ്റ്റ്വെയറിന് ഉപയോഗിക്കുക കൂടാതെ കാര്യങ്ങൾക്കായി ആ സേവനം തിരയാനും പ്രയോജനപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയും സ്വഭാവഗുണങ്ങൾ സാധാരണ സവിശേഷതകളിലൊന്നായ വാണിജ്യ സോഫ്റ്റ്വെയറിലേക്കുള്ള യുക്തിപരമായി കേന്ദ്രീകൃതമായ കാര്യങ്ങളാണ് സോഫ്റ്റ്വെയർ ഉണ്ട് വെബ് സേവനങ്ങൾ ഞാൻ ഉപയോഗിക്കുകയും ആ പരീക്ഷ നടത്തുകയും തുടർന്ന് തൽക്കാലം അത് മറക്കുകയും ചെയ്യുന്നു അതിനാൽ നികുതി ബില്ലിംഗ് CRM എന്നിവ ഉപയോഗിക്കും വളരെ വേഗതയുള്ള പ്രോസസ്സിംഗ് ആയി സമർപ്പിക്കണമെന്ന് ഞാൻ വ്യവസ്ഥ ചെയ്യുന്നു നിയമനിർമ്മാണവും മറ്റ് നിയന്ത്രണങ്ങളും ഡാറ്റ നിങ്ങളുടെ പക്കലുണ്ടാകാം അതുപോലെ ഒരു സേവനമെന്ന നിലയിൽ പ്ലാറ്റ്ഫോമിനായി നൽകുന്നു അതിനാൽ ഒരേ ഇൻറഗ്രേറ്റഡ് ഡെവലപ്മെൻറ് എൻവിയോൺമെൻറിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവ കാര്യങ്ങളുടെ മറ്റ് വശങ്ങളാണ് ഞാൻ എങ്ങനെയാണ് മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നത്

അതിനാൽ ഒരു ഡെവലപ്മെൻറ് ഇത് ചെയ്യുന്നതിന് ഒരു അനുയോജ്യമായ അടിത്തറയായിരിക്കും ടെസ്റ്റിംഗും ലഭ്യമാക്കുകയും ചെയ്യുന്നു PaaS അനുയോജ്യമാകാൻ ഉണ്ടാകാനിടയില്ലാത്ത സാഹചര്യങ്ങൾ

അതിനാൽ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് കുത്തക കാര്യങ്ങളേക്കാൾ പൊതു സംവിധാനങ്ങളിലല്ല പ്രശ്നങ്ങൾ നോക്കുന്നതിന്റെ ചില ഉടമസ്ഥാവകാശ സമീപനങ്ങളുണ്ടാകാം അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗപ്രദമാകില്ല ഉടമസ്ഥാവകാശ ഭാഷ പിന്നീട് മറ്റൊരു ദാതാവിന്റെ നീക്കങ്ങളെ തടസ്സപ്പെടുത്തുന്നിടത്ത് വെണ്ടർ ലോക്കിംഗ് ആയിരിക്കില്ല അവസാനമായി ആവശ്യാനുസരണം സെർവറുകൾ ഉണ്ടായിരിക്കാം അതിനാൽ അങ്ങനെയാണ് അങ്ങേയറ്റം ജനപ്രിയവും ഉപയോഗപ്രദവുമായ IaaS വിഭവങ്ങൾ സേവനങ്ങളായി വിതരണം ചെയ്യപ്പെടുന്നുവെന്നും ഡൈനാമിക് സ്കെയിലിംഗ് തിരിച്ചറിയുന്ന ഒരുപാട് ഉപയോക്താക്കൾ ഉണ്ടാകും ഇത് വളരെയധികം അർത്ഥമാക്കുന്നത് ആവശ്യം വളരെ അസ്ഥിരമാണ് എന്നാണ് എനിക്ക് ഒരു പ്രത്യേക മെമ്മറി മുതലായവ ഉണ്ട് നിങ്ങളുടെ ഡാറ്റ തിരിച്ചറിവുള്ള ഒരു നല്ല പരിഹാരമായിരിക്കില്ല എല്ലാത്തിനുമുപരി നിങ്ങൾക്ക് ഈ VMകൾ ഉള്ളപ്പോൾ അതിനാൽ ചില വിർച്വൽ മെഷീൻ മോണിറ്ററിനേക്കാൾ ആയിട്ടുള്ള അതായത് ഏറ്റവും ഉയർന്ന പ്രകടനം ആവശ്യമുള്ളിടത്ത് ഇതായിരിക്കില്ല നിങ്ങളുടെ ആവശ്യം അതിനാൽ ഇവ ജനപ്രിയ SaaS ദാതാക്കളിൽ ചിലതാണ് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയുന്നില്ല അതിനാൽ അവയ്ക്ക് വ്യത്യസ്ത പ്രൈസിംഗ് മോഡലുകൾ തുടങ്ങിയവ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇതിന് വ്യത്യസ്ത തരത്തിലുള്ളത് നിർദ്ദേശിക്കുന്നു IaaS ദാതാക്കളും പ്രധാന IaaS ദാതാക്കളും മറ്റ് നിരവധി IaaS ദാതാക്കളുമുണ്ട് അവയ്ക്ക് വ്യത്യസ്ത തരത്തിലുള്ള കപ്പാസിറ്റി സംവിധാനങ്ങളുണ്ട് അതിനാൽ ഇവ വ്യത്യസ്ത തരം IaaS ദാതാക്കളാണ് ഇതിനകം ചർച്ച ചെയ്തതുപോലെ അതിനാൽ ഈ ഘടകങ്ങളുടെ സാധാരണ സ്റ്റാക്കിലേക്ക് ചെയ്യാം ബാക്കി കാര്യങ്ങൾ IaaS ഉപഭോക്താവിന്റെയോ ഉപയോക്താവിന്റെയോ ഉത്തരവാദിത്തമാണ് അതിനാൽ ഇതിൻറെ മറ്റൊരു വശം നെറ്റ്വർക്കിംഗ് ഒരു പ്രധാന പങ്കുണ്ട് എനിക്ക് ഈ നെറ്റ്വർക്ക് നൽകുന്നു

അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ മൊത്തത്തിലുള്ള നെറ്റ്വർക്കിംഗ് ഈ ഉദാഹരണം എന്നെ അനുവദിക്കുന്നു നിങ്ങൾക്ക് വ്യത്യസ്ത ക്ലൌഡ് മോഡലുകളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു നെറ്റ്വർക്ക് ഫംഗ്ഷൻ വിർച്വലൈസേഷൻ വിവിധ സ്ഥലങ്ങളിലേക്ക് നീക്കാൻ കഴിയും അതിനർത്ഥം തുടർന്നുള്ള പ്രസംഗത്തിൽ ഇതിനെ കുറിച്ച് ഞാൻ കുറച്ച് ചർച്ച ചെയ്യും അതിനാൽ എനിക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ തിരിച്ചറിയാൻ കഴിയും അതിനാൽ ഇന്നത്തെ പ്രഭാഷണം ഇവിടെ നിർത്താം തുടർന്നുള്ള ചർച്ചകളിൽ ചർച്ച തുടരാം